ആശംസകൾ യൂണിറ്റ് 2 മോഡ്യൂൾ 18 സമ്മറി ഫീഡ്ബാക്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ യൂണിറ്റിൽ പ്രോജക്റ്റ് എക്സിറ്റ് സർവേകളുടെ രൂപകൽപ്പനയും ഉപയോഗവും ഞങ്ങൾ മനസ്സിലാക്കി പ്രധാന പ്രോജക്ടും കൂടാതെ മിനി പ്രോജക്റ്റുകൾക്കായുള്ള എക്സിറ്റ് സർവേകളും മിനി പ്രോജക്റ്റ് സ്വതന്ത്ര കോഴ്സുകളായും സാധാരണ കോഴ്സിന്റെ ഭാഗമായും അതിനാൽ അത്തരം എല്ലാ പ്രോജക്റ്റ് പ്രവർത്തനങ്ങൾക്കുമായി എക്സിറ്റ് സർവേകളുടെ രൂപകൽപ്പനയും ഉപയോഗവും ഞങ്ങൾ മനസ്സിലാക്കി ഈ യൂണിറ്റിൽ എല്ലാ മൂല്യനിർണ്ണയങ്ങളിൽ നിന്നും ഡാറ്റ സംഗ്രഹിക്കുന്ന പ്രക്രിയയും സ്വയം സംഗ്രഹ ഫീഡ്ബാക്ക് തയ്യാറാക്കുന്ന പ്രക്രിയയും ഞങ്ങൾ പരിശോധിക്കും ഈ യൂണിറ്റിന്റെ ഫലം "എല്ലാ മൂല്യനിർണ്ണയങ്ങളിൽ നിന്നും ഡാറ്റ സംഗ്രഹിക്കുന്ന പ്രക്രിയ മനസിലാക്കുകയും സ്വയം സംക്ഷിപ്ത ഫീഡ്ബാക്ക് തയ്യാറാക്കുകയും ചെയ്യുക" എന്നതാണ് ADDIE മോഡലിന്റെ വിലയിരുത്തൽ ഘട്ടം വാഗ്ദാനം ചെയ്ത കോഴ്സിന്റെ സംഗ്രഹ മൂല്യനിർണ്ണയത്തെ സൂചിപ്പിക്കുന്നു ഞങ്ങൾ നേരത്തെ കണ്ടതുപോലെ ADDIE യുടെ ഓരോ ഘട്ടത്തിനു ശേഷം വിശകലന ഘട്ടം രൂപകൽപ്പന ഘട്ടം വികസന ഘട്ടം നടപ്പിലാക്കൽ ഘട്ടം എന്നിവയ്ക്ക് ശേഷം ആ പ്രത്യേക ഘട്ടത്തിന്റെ ഔട്ട്പുട്ടുകൾ എല്ലായ്പ്പോഴും മുൻകൂട്ടി അവലോകനം ചെയ്യപ്പെടും അത്തരം പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഞങ്ങൾ വീണ്ടും സന്ദർശിക്കേണ്ടതുണ്ടോ എന്ന് നോക്കാൻ എന്നാൽ അന്തിമ മൂല്യനിർണ്ണയ ഘട്ടമുണ്ട് അത് സംഗ്രഹ പ്രകൃതമാണ് അതിനാൽ വാഗ്ദാനം ചെയ്ത കോഴ്സിന്റെ സംഗ്രഹ മൂല്യനിർണ്ണയമാണിത് കോഴ്സ് ഫലങ്ങളുടെ നേട്ടവും അതുവഴി പ്രോഗ്രാം ഫലങ്ങളും പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങളും കണക്കാക്കുന്നതിന് കോഴ്സ് രൂപകൽപ്പനയുടെ ഓരോ സന്ദർഭവും അതിന്റെ നടത്തിപ്പും വിലയിരുത്തണം എല്ലാ സംഭവങ്ങളും ചില അർത്ഥത്തിൽ സവിശേഷമാണ് അതിനാൽ ഓരോ തവണയും കോഴ്സ് നടപ്പിലാക്കുന്നതിന് സവിശേഷതകളുണ്ട് അതിനാൽ സിഒകളുടെ നേട്ടവും അതുവഴി പിഒകളും പിഎസ്ഒകളും കണക്കാക്കേണ്ടതുണ്ട് കോഴ്സിന്റെ അടുത്ത വാഗ്ദാനത്തിൽ നിർദ്ദേശങ്ങളുടെ നിർദ്ദിഷ്ട മെച്ചപ്പെടുത്തലുകൾ തിരിച്ചറിയുക എന്നതാണ് മൂല്യനിർണ്ണയ ഘട്ടത്തിന്റെ ഔട്ട്പുട്ട് സിഒ നേട്ടങ്ങളുടെയും നേട്ടങ്ങളുടെ വിടവുകൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് തുല്യരിൽ നിന്നുള്ള ഇൻപുട്ടുകൾ ലഭ്യമാണെങ്കിൽ ഇൻസ്ട്രക്ടറുടെ തന്നെ നിരീക്ഷണങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദിഷ്ട മെച്ചപ്പെടുത്തലുകൾ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ നടപ്പാക്കൽ ഘട്ടത്തിൽ ഓരോ ഇൻസ്ട്രക്ഷൻ യൂണിറ്റിനുശേഷവും ഇൻസ്ട്രക്ടർ ആ പ്രത്യേക ഇൻസ്ട്രക്ഷൻ യൂണിറ്റിന്റെ നടപ്പാക്കലിനെക്കുറിച്ച് ചില കുറിപ്പുകൾ നൽകണം ഇൻസ്ട്രക്ടർ തന്നെ നടത്തിയ ഈ നിരീക്ഷണങ്ങളെല്ലാം അടിസ്ഥാനമാക്കി ഞങ്ങൾക്ക് നിർദ്ദിഷ്ട മെച്ചപ്പെടുത്തലുകൾ ആസൂത്രണം ചെയ്യാൻ കഴിയും നിർദ്ദിഷ്ട മെച്ചപ്പെടുത്തലുകൾ സിഒ നേടുന്നതിനുള്ള വിടവുകൾ വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് തുല്യരിൽ നിന്നുള്ള ഇൻപുട്ട് ഇൻസ്ട്രക്ടറുടെ തന്നെ നിരീക്ഷണം എന്നിവയ്ക്കായി ഡാറ്റ നേടുന്നതിനുള്ള വ്യത്യസ്ത ഉറവിടങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് ഞങ്ങൾ ഇതിനകം കണ്ടതുപോലെ സിഒ നേട്ടങ്ങൾ കണക്കാക്കുന്നു എല്ലാ സംഗ്രഹ ഉപകരണങ്ങളിലെയും വിദ്യാർത്ഥികളുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വിലയിരുത്തൽ പരിശോധനകൾ ക്വിസുകൾ അസൈൻമെന്റുകൾ സെമസ്റ്റർ പരീക്ഷകൾ കോഴ്സ് എക്സിറ്റ് സർവേകൾ ഉപയോഗിച്ച് പരോക്ഷമായ രീതിയിൽ സിഒയുടെ നേട്ടം കണക്കാക്കുന്നത് സാധ്യമാണെന്ന് ഞങ്ങൾ കണ്ടു പരോക്ഷമായ മാർഗങ്ങളിൽ നിന്ന് കണക്കുകൂട്ടിയ നേട്ടത്തെ വിദ്യാർത്ഥികളുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള നേരിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് കണക്കുകൂട്ടിയേക്കാം മിക്കവാറും 1090 അനുപാതത്തിൽ ആയിരിക്കാം അങ്ങനെയാണ് മൊത്തം സിഒ നേട്ടം കണക്കാക്കുന്നത് തീർച്ചയായും കോഴ്സ് എക്സിറ്റ് സർവേകളിലൂടെ സിഒ അറ്റാച്ചുമെന്റ് കണക്കാക്കുന്നത് ഐച്ഛികമാണ് ഒരാൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും അല്ലെങ്കിൽ അടുത്ത തവണ കോഴ്സ് നടപ്പിലാക്കുന്നതിലെ മെച്ചപ്പെടുത്തലുകൾ ആസൂത്രണം ചെയ്യുന്നതിന് മാത്രമേ ഒരാൾക്ക് എക്സിറ്റ് സർവേ ഉപയോഗിക്കാൻ കഴിയൂ തിരഞ്ഞെടുത്ത ടാർഗെറ്റ് ഉപയോഗിച്ച് സിഒ കൈവരിക്കാനുള്ള വിടവുകൾ തിരിച്ചറിയുന്നു ഓരോ സിഒനേട്ടങ്ങളുടെ വിടവും ശ്രദ്ധയോടുകൂടി അപഗ്രഥിച്ച് പഠനത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ നിർദ്ദശങ്ങളിൽ നിർദ്ദിഷ്ടമാറ്റങ്ങൾ വരുത്താൻ ആസൂത്രണം ചെയ്യണം ഈ മെച്ചപ്പെടുത്തൽ പദ്ധതികൾ നിർദ്ദിഷ്ടമായിരിക്കണം അവയിൽ ആ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്നതിന് എടുത്ത സമയം ആവശ്യമുള്ള ഏതെങ്കിലും അധിക വിഭവങ്ങൾ എന്നിവ ഉൾപ്പെടുത്തണം കൂടാതെ ചിലവ് ഉൾക്കൊള്ളുന്നുവെങ്കിൽ അതിന്റെ ഏകദേശ എസ്റ്റിമേറ്റ് ഇവയെല്ലാം ഉൾപ്പെടുത്തണം മെച്ചപ്പെടുത്തൽ പദ്ധതികൾ തികച്ചും വ്യക്തമായിരിക്കണം പരിശീലനത്തിന്റെ കാര്യത്തിൽ ശരിക്കും അർത്ഥമില്ലാത്ത അവ്യക്തമായ കർമപദ്ധതികൾ വളരെയധികം സഹായകരമല്ല പഠന നിലവാരം മെച്ചപ്പെടുത്തുന്ന നിർദ്ദേശങ്ങളിൽ പ്രത്യേക മാറ്റങ്ങൾ ആസൂത്രണം ചെയ്യണം സെഷനിൽ വിദ്യാർത്ഥികളുടെ ഫീഡ്ബാക്ക് ലഭിക്കും കോഴ്സ് എക്സിറ്റ് സർവേയിൽ ഞങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ ഫീഡ്ബാക്ക് നേടാനാകുമെന്നും എല്ലാ മൂല്യനിർണ്ണയ ഉപകരണങ്ങളിലും വിദ്യാർത്ഥികളുടെ പ്രകടനം ഞങ്ങൾക്ക് ഉപയോഗപ്രദമായ ഫീഡ്ബാക്ക് നൽകുന്നുണ്ടെന്നും ഞങ്ങൾ കണ്ടു വിദ്യാർത്ഥികളുടെ പ്രകടനം പൊതുവെ വളരെ തൃപ്തികരമോ സ്വീകാര്യമായ നിലവാരത്തിന് താഴെയോ ഉള്ള സിഒകൾ എന്തൊക്കെയാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ചില തടസ്സങ്ങളുള്ള എല്ലാ സിഒകളും ഇവയാണ് അതിനാൽ ഞങ്ങൾ മെച്ചപ്പെടുത്തലുകൾ ആസൂത്രണം ചെയ്യുമ്പോൾ എല്ലാ മൂല്യനിർണ്ണയ ഉപകരണങ്ങളിലെയും വിദ്യാർത്ഥികളുടെ പ്രകടനവും വിലയേറിയ ഫീഡ്ബാക്കായി മാറുന്നു പിയർ ഫീഡ്ബാക്ക് ഇത് ലഭ്യമായേക്കാം അല്ലെങ്കിൽ ലഭ്യമായേക്കില്ല അത് വകുപ്പിലെ രീതികളെ ആശ്രയിച്ചിരിക്കുന്നു ചില സെഷനുകളിലേക്ക് നിരീക്ഷകരായി ക്ഷണിക്കുമ്പോൾ പ്രാഥമികമായി സമന്മാർ നൽകുന്ന നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇത് അത്തരമൊരു സംവിധാനം നിലവിലുണ്ടെങ്കിൽ സമന്മാർ നൽകുന്ന ഫീഡ്ബാക്ക് തികച്ചും ഉപയോഗപ്രദമാകും നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഭൂരിഭാഗം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും ഒരു ഗുണനിലവാര സമിതി ഉണ്ട് അതിലൂടെ ആന്തരിക വിലയിരുത്തൽ ഉപകരണങ്ങൾ ഒരു ചെറിയ കമ്മിറ്റിയുടെ അവലോകന പ്രക്രിയയിലൂടെ കടന്നുപോകുന്നു ഭാഷ അവ്യക്തമല്ലെന്ന് ഉറപ്പുവരുത്താൻ സാങ്കേതികമായി ചോദ്യം പൂർണ്ണവും ശരിയുമാണ് സിഒകളെ ശരിയായി അഭിസംബോധന ചെയ്യുന്നു സമയ എസ്റ്റിമേറ്റ് ശരിയാണ് ഈ എല്ലാ വശങ്ങളിൽ നിന്നും മൂല്യനിർണ്ണയ ഉപകരണങ്ങൾ അവലോകനം ചെയ്യുകയും ഫീഡ്ബാക്ക് റെക്കോർഡുചെയ്യുകയും അത് ഇൻസ്ട്രക്ടർക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു ഈ മൂല്യനിർണ്ണയ ഉപകരണങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ സമന്മാരിൽ നിന്ന് വിലയേറിയ ഫീഡ്ബാക്ക് നൽകുന്നു അതിനാൽ പിയർ ഫീഡ്ബാക്ക് നിരീക്ഷകരിൽ നിന്നും വിലയിരുത്തൽ ഉപകരണങ്ങളിലെ അഭിപ്രായങ്ങളിൽ നിന്നും ആകാം മൂല്യനിർണ്ണയ ഉപകരണങ്ങളുടെ ഔപചാരിക അവലോകന പ്രക്രിയകളില്ലാത്ത സാഹചര്യങ്ങളിൽപ്പോലും മൂല്യനിർണ്ണയ ഉപകരണങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ നൽകാൻ ഇൻസ്ട്രക്ടർക്ക് സഹപ്രവർത്തകരോട് അഭ്യർത്ഥിക്കാൻ കഴിയും അത് വളരെ സഹായകരമാകും നിങ്ങൾ തന്നെ മറ്റൊരു പ്രധാന ഉറവിടമാണ് എല്ലാ സിഒകൾക്കും നിർദ്ദേശങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം നിരീക്ഷണങ്ങൾ റെക്കോർഡുചെയ്യേണ്ടതുണ്ടെന്ന് ഞങ്ങൾ കണ്ടു വാസ്തവത്തിൽ ഓരോ ഐയുവിന് ശേഷവും ഇൻസ്ട്രക്ടർ തൻ്റെ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തുന്നു യു പൂർത്തിയാക്കിയ ഉടൻ നൽകിയ വിശദമായ നിരീക്ഷണങ്ങൾ വളരെ സഹായകരമാകും മൂല്യനിർണ്ണയ ഉപകരണങ്ങളെയും വിദ്യാർത്ഥികളുടെ പ്രകടനത്തെയും കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വിദ്യാർത്ഥികളുടെ പ്രകടനവും മൂല്യനിർണ്ണയ ഉപകരണങ്ങളുടെ ഗുണനിലവാരവും ഇൻസ്ട്രക്ടർക്ക് സ്വയം രേഖപ്പെടുത്താൻ കഴിയും ഏതെങ്കിലും അധിക സെഷനുകളിലെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുന്നു അവ ആവശ്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അവ ആവശ്യമായിരുന്നത് അധിക സെഷനുകൾ ആവശ്യമുള്ള പ്ലാൻ അനുസരിച്ച് നിർദ്ദേശ ആസൂത്രണത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങൾ പോകുന്നില്ല എന്തുകൊണ്ട് അത് സംഭവിച്ചു അതിനാൽ ഇൻസ്ട്രക്ടറുടെ ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് സാധ്യമാണെങ്കിൽ വിദ്യാർത്ഥികളുമായി അനൌപചാരിക ചർച്ചകൾ വളരെ സഹായകരമാകും ചിലതരം കോഴ്സ് വിദ്യാർത്ഥികളുമായി നിർഗ്ഗമനമുഖാമുഖ ചർച്ചകൾ തീർച്ചയായും ഇത് സംഭവിക്കണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഫാക്കൽറ്റികളുമായി നല്ല ബന്ധം ഉണ്ടായിരിക്കണം അവർക്ക് അത്തരം ഒരു ഫീഡ്ബാക്ക് നൽകാൻ കഴിയുമെങ്കിൽ അത് വളരെ മൂല്യവത്താണെന്ന് തെളിയിക്കുന്നു ചില സ്ഥാപനങ്ങളിൽ എച്ച്ഒഡിക്ക് ചില ഫീഡ്ബാക്ക് നൽകാം കൂടാതെ പ്രിൻസിപ്പൽ പോലും വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിച്ച ഏതെങ്കിലും ഫീഡ്ബാക്കിനെ അടിസ്ഥാനമാക്കി ചില ഇൻപുട്ടുകൾ നൽകാം അവയെല്ലാം ഉപയോഗിക്കേണ്ട അധിക വിവര സ്രോതസ്സുകളായി മാറുന്നു എല്ലാ ഉറവിടങ്ങളിൽ നിന്നും ലഭിച്ച ഈ ഫീഡ്ബാക്കുകൾ ഇൻസ്ട്രക്ടർ സംയോജിപ്പിക്കേണ്ടതുണ്ട് ഫീഡ്ബാക്കിന്റെ എല്ലാ ഘടകങ്ങളും ഇൻസ്ട്രക്ടർക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കില്ല ചിലപ്പോൾ ഒരു ഫീഡ്ബാക്ക് ശരിക്കും സാധുവായ ഫീഡ്ബാക്ക് ആയിരിക്കില്ല ഇത് ഇൻസ്ട്രക്ടർ സമ്മതിക്കുന്ന ഒന്നായിരിക്കില്ല അത് തികച്ചും സാധ്യമാണ് എന്നാൽ മുഴുവൻ ഫീഡ്ബാക്കും ഞങ്ങൾ നോക്കണം കൂടാതെ ഫീഡ്ബാക്കിന്റെ ചില വശങ്ങൾ സ്വീകാര്യമല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് സ്വീകാര്യമല്ലാത്തതെന്ന് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാം പക്ഷേ ഫീഡ്ബാക്ക് തുറന്ന മനസ്സോടെ നിർദ്ദേശം മെച്ചപ്പെടുത്തുന്നതിനുള്ള മനസോടെ നോക്കണം ചില സമയങ്ങളിൽ ഫീഡ്ബാക്ക് അവ്യക്തമായതോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ വീക്ഷണകോണിൽ നിന്ന് നൽകുന്നതോ ആയ പദങ്ങളിലായിരിക്കാം മാത്രമല്ല ആ ഭാഷയെ ഇൻസ്ട്രക്ടർക്ക് അർത്ഥമാക്കുന്ന ഭാഷയിലേക്ക് ഞങ്ങൾ വിവർത്തനം ചെയ്യേണ്ടിവരാം ഞങ്ങൾ ഇത് കൂടുതൽ വ്യക്തമാക്കുന്നു ഞങ്ങൾ അത് വ്യക്തമാക്കുകയും അത് കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഞങ്ങൾ പ്രസ്താവിക്കുകയും ചെയ്യുന്നു അതിനാൽ ചില ഫീഡ്ബാക്ക് ഇൻസ്ട്രക്ടർക്ക് അർത്ഥമുള്ള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യേണ്ടതുണ്ട് ആവശ്യമെങ്കിൽ മാറ്റിയെഴുതിയ ശേഷം ഞങ്ങളുടെ പക്കലുള്ള ഏകീകൃത ഡാറ്റയെ ഇപ്പോൾ നാല് വിഭാഗങ്ങളായി തിരിക്കാം ആദ്യ വിഭാഗം പൂരകങ്ങളായിരിക്കും എന്താണ് ശരിയായി പോയത് കോഴ്സിന് അനുയോജ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടർന്ന് നിർദ്ദേശം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശത്തിനുള്ള ശുപാർശകൾ അധ്യാപക വിദ്യാർത്ഥി ഇടപെടൽ നിർദ്ദേശം യഥാർത്ഥത്തിൽ ക്ലാസ് മുറിയിൽ നടന്നത് എങ്ങനെ ക്ലാസ് റൂം ആശയവിനിമയം വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായുള്ള ആശങ്ക വിദ്യാർത്ഥികളുടെ നല്ല പഠനം ശരിയായ തലത്തിലുള്ള വെല്ലുവിളികൾ നൽകുക ചോദ്യങ്ങൾ ചോദിക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക പൊതുവേ ക്ലാസ് റൂം സെഷനുകളിൽ കൂടുതൽ ആശയവിനിമയം നടത്താൻ അനുവദിക്കുക വിദ്യാർത്ഥികളോടുള്ള പിന്തുണാ മനോഭാവം വിദ്യാർത്ഥികളുടെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് പിന്തുണാ മനോഭാവം ഇതെല്ലാം അധ്യാപക വിദ്യാർത്ഥി ഇടപെടലിന് കീഴിലാണ് ഈ വശങ്ങളുമായി ബന്ധപ്പെട്ട ഫീഡ്ബാക്ക് കുറിക്കാൻ കഴിയും അഭിസംബോധന ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളും അതിന്റെ കാരണങ്ങളും ചില സമയങ്ങളിൽ ഫീഡ്ബാക്ക് ചില വിടവുകളെ സൂചിപ്പിക്കുന്നു പക്ഷേ അത് പരിഹരിക്കാനുള്ള സംവിധാനം വിവിധ കാരണങ്ങളാൽ നമുക്കില്ല ഉദാഹരണത്തിന് ഇത് ഒരു ടയർ II ഇൻസ്റ്റിറ്റ്യൂട്ടാണെങ്കിൽ അത് സിലബസിന്റെ ചില വശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണെങ്കിൽ സാഹചര്യം പരിഹരിക്കുന്നതിന് ഇൻസ്ട്രക്ടർക്ക് ഉടനടി മാർഗമുണ്ടായിരിക്കില്ല മറ്റ് നിരവധി കാരണങ്ങളുണ്ടാകാം അഡ്മിനിസ്ട്രേറ്റീവ് ടെക്നിക്കൽ മറ്റ് പല കാരണങ്ങൾ അതിനാൽ ഇപ്പോൾ തന്നെ ഇൻസ്ട്രക്ടർക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല അഭിസംബോധന ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളും അതിന്റെ കാരണവും നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും എന്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് അത് അഭിസംബോധന ചെയ്യാൻ കഴിയാത്തത് ഭാവിയിലായിരിക്കാം മറ്റെന്തെങ്കിലും സമയം ഞങ്ങൾക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയും എന്നാൽ ഈ ഘട്ടത്തിൽ ഫീഡ്ബാക്ക് ഉന്നയിച്ച പ്രത്യേക പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അത്തരം സംഗ്രഹം ഇൻസ്ട്രക്ടറെ ഒരു വ്യക്തിയായി വളരാൻ പ്രാപ്തമാക്കുകയും തന്മൂലം വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുകയും ചെയ്യുന്നു കോഴ്സ് നടപ്പിലാക്കുന്ന ഓരോ സന്ദർഭത്തിനും ശേഷം ഇൻസ്ട്രക്ടർ അത്തരം കുറിപ്പുകളുമായി അവസാനിപ്പിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള വിലപ്പെട്ട രേഖകളായി ഇവ മാറുകയും അതോടൊപ്പം ഒരു വ്യക്തിയായി വളരാൻ അധ്യാപകനെ അനുവദിക്കുകയും ചെയ്യുന്നു കോഴ്സ് ഡെലിവറിയുടെ അവസാനത്തിലെ ഒരു പ്രധാന അന്തിമ പ്രവർത്തനമാണിത് അഭ്യാസം നിങ്ങൾ പഠിപ്പിച്ച ഒരു കോഴ്സിനെക്കുറിച്ച് സ്വയം ശുപാർശകൾ നൽകുക അഭ്യാസത്തിന്റെ ഫലം tale iisctagmail com ൽ പങ്കിട്ടതിന് നന്ദി ഇപ്പോൾ മൊഡ്യൂൾ 2 ന്റെ അവസാന യൂണിറ്റ് പൂർത്തിയാക്കുന്നു അതിനാൽ നമുക്ക് മൊഡ്യൂൾ 2 ന്റെ റീക്യാപ്പ് വേഗത്തിൽ നേടാം മൊഡ്യൂൾ 2 പുനരവലോകനം ചെയ്യാം ഫിങ്കിന്റെ മാതൃകയെ അടിസ്ഥാനമാക്കി അധ്യാപനത്തിന്റെ ഘടകങ്ങൾ ഞങ്ങൾ കണ്ടു നാല് വശങ്ങളുണ്ട് വിഷയത്തെക്കുറിച്ചുള്ള അറിവ് കോഴ്സിന്റെ രൂപകൽപ്പന ഇവ രണ്ടും പരസ്പരവ്യവഹാരത്തിന്റെ തുടക്കത്തിലാണ് സംഭവിക്കുന്നത് കോഴ്സ് ആരംഭിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് അധ്യാപക വിദ്യാർത്ഥി ഇടപെടലും കോഴ്സ് മാനേജുമെന്റും ഉണ്ട് അതിനാൽ ഈ നാല് വശങ്ങളാണ് പ്രധാനം അധ്യാപനത്തിന്റെ പ്രധാന ഘടകങ്ങൾ ഇവയിൽ ഈ മൊഡ്യൂളിലെ കോഴ്സ് രൂപകൽപ്പന ഞങ്ങളെ ബാധിക്കുന്നതാണ് കോഴ്സ് രൂപകൽപ്പനയിൽ അത് കോഴ്സിന്റെ അവസാനം "വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നത് വളരെ പ്രധാനം" വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന വിലയിരുത്തലുകൾ രൂപകൽപ്പന ചെയ്യുക പ്രഖ്യാപിത കോഴ്സ് ഫലങ്ങൾ നേടാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ഫോർമാറ്റീവ് അസസ്മെന്റുകൾ ഉൾപ്പെടെയുള്ള ആസൂത്രണ നിർദ്ദേശങ്ങൾ വൃക്തമായി പ്രസ്താവിക്കുന്നതായ കോഴ്സ് ഫലങ്ങൾ എഴുതുന്നത് ഉൾക്കൊള്ളുന്നു എല്ലാ കോഴ്സിലും ഉള്ള ഈ മൂന്ന് വശങ്ങൾ ഇവയാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് അത് കോഴ്സ് ഫലങ്ങളാണ് അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് എത്രത്തോളം കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം അതാണ് വിലയിരുത്തൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് ഞങ്ങൾ എന്തുചെയ്യും ഏത് തരത്തിലുള്ള നിർദ്ദേശമാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് പ്രഖ്യാപിത കോഴ്സ് ഫലങ്ങൾ നേടാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ഫോർമാറ്റീവ് അസസ്മെന്റുകൾ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അതിനാൽ നിർദ്ദേശം വിലയിരുത്തൽ സിഒകൾ എന്നിവയും ഇവ മൂന്നും പരസ്പരം വിന്യസിക്കുമ്പോൾ പഠന നിലവാരം പൊതുവെ മികച്ചതായിരിക്കും കോഴ്സ് രൂപകൽപ്പനയിൽ ഈ പ്രശ്നങ്ങളെല്ലാം നാം നോക്കേണ്ടതുണ്ട് മിക്ക ഫാക്കൽറ്റി അംഗങ്ങളും ഒരുപക്ഷേ അവർ വിദ്യാർത്ഥികളായി അനുഭവിച്ച പ്രക്രിയകൾ പിന്തുടരുന്നു ഔപചാരിക പ്രവർത്തനമെന്ന നിലയിൽ കോഴ്സ് രൂപകൽപ്പന ഒരുപക്ഷേ പല ഫാക്കൽറ്റികളും ചെയ്യുന്നില്ല ചില ഫാക്കൽറ്റികൾ ഔപചാരിക മാതൃക ഉപയോഗിച്ച് കോഴ്സുകൾ രൂപകൽപ്പന ചെയ്യുന്നു എന്നാൽ പല സ്ഥാപനങ്ങളിലും ഇത് സാധാരണമായിരിക്കില്ല അദ്ധ്യാപകർ അവരുടെ അദ്ധ്യാപനത്തിൽ പതിവായി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പഠന നിലവാരം ഗണ്യമായി മെച്ചപ്പെടുത്തുന്നതിനും കോഴ്സ് രൂപകൽപ്പനയ്ക്ക് ഏറ്റവും വലിയ കഴിവുണ്ട് ഞങ്ങൾ ADDIE മോഡലിലേക്ക് നോക്കി നിരവധി ഇൻസ്ട്രക്ഷണൽ സിസ്റ്റം ഡിസൈൻ മോഡലുകൾ ഉണ്ട് ഞങ്ങൾ മോഡലുകളിലൊന്ന് നോക്കി ADDIE ADDIE എന്നാൽ വിശകലനം രൂപകൽപ്പന വികസനം നടപ്പിലാക്കൽ വിലയിരുത്തൽ എന്നിവയെ സൂചിപ്പിക്കുന്നു ഇത് ഒരു പഠന ഉൽപ്പന്നത്തിന്റെ വികസനത്തിനുള്ള ഒരു പ്രക്രിയയാണ് ഒരു നിർദ്ദിഷ്ട എഞ്ചിനീയറിംഗ് കോഴ്സല്ല മറിച്ച് ഏതെങ്കിലും പഠന ഉൽപ്പന്നമാണ് ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠനം നിർമ്മിക്കുന്നതിന് ADDIE ആശയം പ്രയോഗിക്കാൻ കഴിയും 1975 മുതൽ സജീവവും ബഹുപ്രയോഗികവും സ്ഥിതിചെയ്യുന്നതും പഠനത്തിന് പ്രചോദനാത്മകവുമായ സമീപനങ്ങളെ സഹായിക്കുന്നതുമായ ഒരു ചട്ടക്കൂടായി ADDIE വികസിച്ചു ഇത് തികച്ചും വഴക്കമുള്ളതാണ് ചില ആളുകൾ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ADDIE ന് ഓരോ ഘട്ടത്തിലും ഫീഡ്ബാക്കുകൾ ഉണ്ട് ഓരോ ഘട്ടത്തിനും ശേഷം ഔട്ട്പുട്ടുകൾ അവലോകനം ചെയ്യുകയും ആവശ്യമെങ്കിൽ പ്രവർത്തനങ്ങൾ വീണ്ടും സന്ദർശിക്കുകയും ചെയ്യുന്നു അവസാനം ഒരു സംഗ്രഹ മൂല്യനിർണ്ണയ ഘട്ടമുണ്ട് അതിനാൽ ADDIE മോഡൽ ഒരു ലീനിയർ വാട്ടർഫാൾ മോഡൽ പോലെ ആണ് ഒന്നിലധികം തലങ്ങളിൽ ഫീഡ്ബാക്കുകളുള്ള ഒരു മോഡലാണിത് വളരെ സൌകര്യപ്രദവും അത് പഠന രൂപകൽപ്പനയിൽ വളരെ നല്ല സമീപനത്തിന് സഹായിക്കുന്ന ഒരു ചട്ടക്കൂടായി പരിണമിച്ചു ഇതാണ് ഞങ്ങൾ ഉപയോഗിച്ച ISD മോഡൽ ADDIE മോഡൽ വിശകലനം രൂപകൽപ്പന വികസിപ്പിക്കുക നടപ്പിലാക്കുക വിലയിരുത്തുക നമുക്ക് കാണാനാകുന്നതുപോലെ ഓരോ ഘട്ടത്തിലും ഫീഡ്ബാക്കുകൾ ഉണ്ട് ഓരോ ഘട്ടത്തിനുശേഷവും വിലയിരുത്തൽ ഉണ്ട് അത് രൂപവത്കരണ സ്വഭാവമാണ് ഒടുവിൽ സംഗ്രഹപ്രകൃതിയിൽ ഒരു ഘട്ടം ഉണ്ട് വിലയിരുത്തൽ ഘട്ടം വിശകലന ഘട്ടം പ്രാഥമികമായി അതിൽ കോഴ്സ് സന്ദർഭവും ഒരു അവലോകനവും അടങ്ങിയിരിക്കുന്നു പാഠ്യപദ്ധതിയിലും നിലവിലെ സന്ദർഭത്തിലും ഞങ്ങൾ കോഴ്സ് സ്ഥാപിക്കേണ്ടതുണ്ട് ഞങ്ങൾക്ക് കൺസെപ്റ്റ് മാപ്പ് വികസിപ്പിക്കാൻ കഴിയും നിങ്ങൾ കോഴ്സ് ഡിസൈൻ നോക്കുമ്പോൾ വളരെ ഉപയോഗപ്രദമാണ് കൺസെപ്റ്റ് മാപ്പ് വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ ലഭ്യമാണ് ഓപ്പൺ സോഴ്സ് ഉപകരണങ്ങൾ കോഴ്സ് ഫലങ്ങൾ ഇത് വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് കോഴ്സിന്റെ അവസാനം വിദ്യാർത്ഥിക്ക് എന്തുചെയ്യാനാകുമെന്ന് വ്യക്തമായി നിർദ്ദേശിക്കുന്ന കോഴ്സ് ഫലങ്ങൾ സാധ്യമായ ടാക്സോണമി തികച്ചും ജനപ്രിയമായ ടാക്സോണമി "പുതുക്കിയ ബ്ലൂംസ് ടാക്സോണമി" "ബ്ലൂം ആൻഡേഴ്സൺ വിൻസെന്റി ടാക്സോണമി" എന്നിവ ഉപയോഗിച്ച് ഞങ്ങൾ കോഴ്സ് ഫലങ്ങൾ എഴുതി ആവശ്യമെങ്കിൽ സിഒകൾ പരിഷ്കരിക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന ഓരോ സിഒ കളുടേയും സാമ്പിൾ അസസ്മെന്റ് ഇനങ്ങൾ മൂല്യനിർണ്ണയ ഉപകരണങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ സിഒ വീണ്ടും സന്ദർശിക്കേണ്ടതുണ്ടെന്ന് കാണാൻ കഴിയും ഓരോ സിഒകൾക്കും ഞങ്ങൾ സാമ്പിൾ അസസ്മെൻറ് ഇനങ്ങൾ എഴുതണം ടാക്സോണമി പട്ടികയിൽ കോഴ്സ് ഫലങ്ങൾ കണ്ടെത്തുന്നു വിജ്ഞാന പ്രക്രിയ വിജ്ഞാന വിഭാഗം ഇവയെ അടിസ്ഥാനമാക്കി ടാക്സോണമി പട്ടികയിൽ സിഒ കണ്ടെത്തുക ഓരോ മൂല്യനിർണ്ണയ ഇനത്തെയും ടാക്സോണമി പട്ടികയിൽ സ്ഥാപിക്കുന്നതിനും മൂല്യനിർണ്ണയം സിഒകളുമായി വിന്യസിച്ചിരിക്കുന്നതായി കാണുന്നതിനും ഞങ്ങൾ മൂല്യനിർണ്ണയ ഉപകരണങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഇത് പിന്നീട് ഞങ്ങളെ സഹായിക്കുന്നു ടാക്സോണമി പട്ടികയിൽ ഞങ്ങൾക്ക് പ്രബോധന പ്രവർത്തനങ്ങൾ സ്ഥാപിക്കാൻ കഴിയും കൂടാതെ സിഒകൾ മൂല്യനിർണ്ണയ ഇനങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഒരു നല്ല വിന്യാസം ഉണ്ടാകുമ്പോൾ പഠനം മികച്ചതായിരിക്കും ടാക്സോണമി പട്ടികയിൽ കോഴ്സ് ഫലങ്ങൾ കണ്ടെത്തുന്നു പിഒ പിഎസ്ഒകളിലേക്ക് കോഴ്സ് മാപ്പിംഗ് തയ്യാറാക്കുന്നു പ്രോഗ്രാം ഫലങ്ങളിലേക്കും പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങളിലേക്കും 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 തലങ്ങളിൽ ഈ മാപ്പിംഗിന്റെ കരുത്തും കുറഞ്ഞ ശക്തി മിതമായ ശക്തി ഉയർന്ന ശക്തി അവസാനമായി പിഒ പിഎസ്ഒ സ്ട്രെംഗ്ത്ത് മാട്രിക്സിലേക്കുള്ള കോഴ്സ് ഓരോ കോഴ്സിനായി ഒരു വരി തുടർന്ന് സിഒയും കഴിവുകളിലേക്ക് വിശദീകരിക്കാൻ ആവശ്യമുള്ളപ്പോൾ ചിലപ്പോൾ സിഒ പ്രകൃതിയിൽ വളരെ സങ്കീർണ്ണമായേക്കാം ആസൂത്രണം ചെയ്യുന്നത് സഹായകരമാകും സിഒയെ ചില കഴിവുകളിലേക്ക് വിഭജിക്കാൻ നല്ല നിർദ്ദേശവും നല്ല വിലയിരുത്തലും ഓരോ സിഒയും ആവശ്യാനുസരണം 4 അല്ലെങ്കിൽ 5 കഴിവുകളിലേക്ക് വിശദീകരിക്കുന്നു രൂപീകരണ മൂല്യനിർണ്ണയ ഘട്ടം വിശകലന ഘട്ടത്തിന്റെ ഔട്ട്പുട്ട് അവലോകനം ചെയ്യേണ്ടതുണ്ട് ആവശ്യമെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ വീണ്ടും സന്ദർശിക്കേണ്ടതുണ്ട് ഡിസൈൻ ഘട്ടം വിലയിരുത്തലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്താണ് യഥാർത്ഥത്തിൽ വിലയിരുത്തൽ എന്താണ് മൂല്യനിർണ്ണയം ഞങ്ങൾ അത് നോക്കി മൂല്യനിർണ്ണയത്തിൽ സാങ്കേതികവിദ്യയുടെ സ്വഭാവവും പങ്കും ഞങ്ങൾ പരിശോധിച്ചു മൂല്യനിർണ്ണയം രൂപകൽപ്പന ചെയ്ത രീതി നടപ്പിലാക്കൽ എന്നിവയിൽ സാങ്കേതികവിദ്യയ്ക്ക് ശക്തമായ സ്വാധീനമുണ്ട് വിലയിരുത്തലിൽ സാങ്കേതികവിദ്യയുടെ സ്വഭാവവും പങ്കും സിഒ കൈവരിക്കുന്നതിനുള്ള ലക്ഷ്യം നിർണ്ണയിക്കൽ ഇവയാണ് വളരെ പ്രധാനപ്പെട്ട വശങ്ങൾ ഒരു പാചകക്കുറിപ്പും സിഒ കൈവരിക്കാനുള്ള ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നതിനുള്ള അൽഗോരിതം രീതിയും ഇല്ല കൂടാതെ ഉചിതമായ രീതി പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും വ്യത്യാസപ്പെടാം സ്ഥാപനത്തിന്റെ മുൻകാല അനുഭവം കണക്കിലെടുക്കേണ്ടതുണ്ട് സിഒകൾ യാഥാർത്ഥ്യബോധമുള്ളതായിരിക്കണം എന്നാൽ അതേ സമയം വളരെ കുറവുള്ള ടാർഗെറ്റുകൾ സജ്ജമാക്കാൻ കഴിയില്ല ഇത് ഒരു നിശ്ചിത അളവിലുള്ള ഗ്രൂപ്പ് ചിന്തകളോടെ നടപ്പിലാക്കേണ്ട ഒരു പ്രവർത്തനമാണ് കൂടാതെ മുൻകാല അനുഭവത്തെ അടിസ്ഥാനമാക്കി ലക്ഷ്യങ്ങൾ ശ്രദ്ധാപൂർവ്വം സജ്ജീകരിക്കേണ്ടതുണ്ട് കാരണം ഒരിക്കൽ ഞങ്ങൾ ലക്ഷ്യം വെച്ചു ഞങ്ങൾക്ക് ആ ടാർഗെറ്റ് ലെവലുകൾ നേടാൻ കഴിയുന്നില്ലെങ്കിൽ ടാർഗെറ്റ് ലെവൽ കുറയ്ക്കുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത ഒരു പ്രവർത്തനമായിരിക്കണം തുടക്കത്തിൽ ടാർഗെറ്റുകൾ ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം സജ്ജമാക്കണം അത് ഡിസൈൻ ഘട്ടത്തിലെ ഒരു പ്രവർത്തനമാണ് മൂല്യനിർണ്ണയ പദ്ധതി ഞങ്ങൾ നിർണ്ണയിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് മിക്കപ്പോഴും ഇൻസ്ട്രക്ടർമാർ മൂല്യനിർണ്ണയ പദ്ധതി നിർണ്ണയിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ സിഒകളെ കവർ ചെയ്യുന്ന കാര്യത്തിൽ അപര്യാപ്തമായ അല്ലെങ്കിൽ അവരുടെ ഷെഡ്യൂളിന് അനുസൃതമായി അപര്യാപ്തമായ മൂല്യനിർണ്ണയ ഉപകരണങ്ങളുമായി അവസാനിച്ചേക്കാം പൊതുവേ ശരിയായ പദ്ധതിയില്ലെങ്കിൽ വിലയിരുത്തലിന്റെ ഗുണനിലവാരം ബാധിക്കുന്നു മൂല്യനിർണ്ണയ പദ്ധതിയിൽ ആ സെമസ്റ്ററിൽ സൃഷ്ടിക്കേണ്ട എല്ലാ മൂല്യനിർണ്ണയ ഉപകരണങ്ങളും എത്ര ആന്തരിക പരിശോധനകൾ എപ്പോൾ ഷെഡ്യൂൾ ചെയ്യേണം ഓരോ ടെസ്റ്റിലും ഉൾപ്പെടുത്തേണ്ട സിഒകൾ ഏത് വൈജ്ഞാനിക തലത്തിലാണ് വിലയിരുത്തൽ ഇനങ്ങൾ അനുബന്ധ സിഒകളുടെ കോഗ്നിറ്റീവ് ലെവലുകൾ ക്വിസുകൾ എത്ര ക്വിസുകൾ ഏത് സിഒകളെ അഭിസംബോധന ചെയ്യണം ഏത് വൈജ്ഞാനിക തലങ്ങളിൽ അസൈൻമെന്റുകൾ ചിന്തിക്കുന്ന മറ്റേതെങ്കിലും പ്രവർത്തനങ്ങൾ അവയെല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്യണം മുൻകൂറായി അതിനാൽ എത്ര ഏത് സമയത്ത് എന്ത് സിഒകൾ ഉൾപ്പെടുത്തണം എത്ര മാർക്കിന് ഏത് വൈജ്ഞാനിക തലങ്ങളിൽ ഇവയെല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്യണം ഇത് വളരെ ശ്രമകരമായ പ്രവർത്തനമാണെന്ന് തോന്നുന്നു പക്ഷേ ഇത് തികച്ചും സഹായകരമാണ് അത് ചെയ്തുകഴിഞ്ഞാൽ കോഴ്സിന്റെ തുടർന്നുള്ള നടപ്പാക്കലുകളിൽ ഇത് അത്ര ഭാരമാകില്ല ഫീഡ്ബാക്കിനെ അടിസ്ഥാനമാക്കി ചില മികച്ച ട്യൂണിംഗ് മാത്രമേ ഇത് അർത്ഥമാക്കൂ മൂല്യനിർണ്ണയ പദ്ധതി ഉണ്ടായിരിക്കണം ഇത് ടയർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ടാണെങ്കിൽ സെമസ്റ്റർ അവസാന പരീക്ഷയ്ക്കുള്ള വിലയിരുത്തൽ പദ്ധതിയും ഞങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം സെമസ്റ്റർ അവസാന പരീക്ഷയ്ക്കായി വീണ്ടും ഒന്നിലധികം പാറ്റേണുകൾ ഉണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്വീകരിക്കുന്ന രീതിയെ ആശ്രയിച്ച് സെമസ്റ്റർ അവസാന പരീക്ഷയും ആസൂത്രണം ചെയ്യണം അതിനാൽ സിഒകൾ എങ്ങനെ വിതരണം ചെയ്യണം മാർക്കുകൾ എങ്ങനെ വിതരണം ചെയ്യണം കോഗ്നിറ്റീവ് ലെവലുകൾ എങ്ങനെ അഭിസംബോധന ചെയ്യണം ഇവയെല്ലാം കണക്കിലെടുക്കേണ്ടതാണ് മാത്രമല്ല ഡിസൈൻ ഘട്ടത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് അത് ചെയ്തുകഴിഞ്ഞാൽ ആ പ്ലാൻ അനുസരിച്ച് യഥാർത്ഥ മൂല്യനിർണ്ണയ ഉപകരണങ്ങളും രൂപകൽപ്പന ചെയ്തിരിക്കണം ഗുണനിലവാര വിലയിരുത്തൽ ഉപകരണങ്ങൾ നേടുന്നതിന് ഇത് മുൻകൂട്ടി ചെയ്യേണ്ടതാണ് അതിനാൽ മൂല്യനിർണ്ണയ പദ്ധതിയെ അടിസ്ഥാനമാക്കി മൂല്യനിർണ്ണയ ഉപകരണങ്ങളും രൂപകൽപ്പന ചെയ്യേണ്ടത് ആവശ്യമാണ് ഇന്റേണൽ ടെസ്റ്റ് പേപ്പറുകൾ ക്വിസ് പേപ്പറുകൾ അസൈൻമെന്റ് വിഷയങ്ങൾ ടയർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലും സെമസ്റ്റർ അവസാന പരീക്ഷകൾ സെമസ്റ്റർ എൻഡ് പരീക്ഷ യഥാർത്ഥത്തിൽ എങ്ങനെ നടപ്പാക്കുന്നു എന്നതിനെ ആശ്രയിച്ച് ഞങ്ങൾ അത്തരം ഒന്നിലധികം ഉപകരണങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട് ഞങ്ങൾക്ക് മൂന്നോ നാലോ മൂല്യനിർണ്ണയ ഉപകരണങ്ങൾ ലഭ്യമായിരിക്കാം അവിടെ പരീക്ഷയുടെ കൺട്രോളർ ക്രമരഹിതമായി ഒന്ന് എടുക്കുന്നു ഇവയെല്ലാം മുൻകൂട്ടി ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ടതാണ് കൂടാതെ ഉചിതമായ ടാഗുചെയ്ത ഇനങ്ങളുള്ള ഒരു നല്ല ഐറ്റം ബാങ്ക് ഉണ്ടെങ്കിൽ മൂല്യനിർണ്ണയ ഉപകരണത്തിന്റെ ഈ സൃഷ്ടി ഒരു പരിധി വരെ സുഗമമാകും കോഴ്സ് ഫലങ്ങൾ കോഗ്നിറ്റീവ് ലെവലുകൾ വിജ്ഞാന വിഭാഗങ്ങൾ ബുദ്ധിമുട്ടുള്ള ലെവലുകൾ എടുത്ത ഏകദേശ സമയം അതിനുള്ള സാമ്പിൾ ഉത്തരങ്ങൾ എന്നിവ ഉപയോഗിച്ച് ടാഗുചെയ്ത ഇനങ്ങൾ ഞങ്ങൾക്ക് ന്യായമായ വലിയ ഐറ്റം ബാങ്ക് ഉണ്ടെങ്കിൽ ആവശ്യമുള്ളപ്പോൾ ഒരു വിലയിരുത്തൽ ഉപകരണം രൂപകൽപ്പന ചെയ്യുന്നത് താരതമ്യേന ലളിതമാകും ഐറ്റം ബാങ്കിന്റെ ഘടന എന്തായിരിക്കും ഈ ഐറ്റം ബാങ്കുകളെ ഞങ്ങൾ എങ്ങനെ സൃഷ്ടിക്കും എന്താണ് ഗുണങ്ങൾ വെല്ലുവിളികൾ എന്തൊക്കെയാണ് അതും ഞങ്ങൾ ചർച്ച ചെയ്യുകയും പതിവുപോലെ ഡിസൈൻ ഘട്ടത്തിന്റെ ഔട്ട്പുട്ട് വീണ്ടും ഒരു രൂപീകരണ വിലയിരുത്തലിലൂടെ കടന്നുപോകുകയും വേണം ഈ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ വീണ്ടും സന്ദർശിക്കേണ്ടതുണ്ട് വികസന ഘട്ടം പ്രാഥമികമായി ഞങ്ങൾ ഡെലിവറി സാങ്കേതികവിദ്യകളാണ് നോക്കുന്നത് പരമ്പരാഗത ചോക്കും ബോർഡ് സമീപനവും മാത്രമുള്ള മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വലിയ തിരഞ്ഞെടുക്കലുകൾ ലഭ്യമാണ് ഞങ്ങൾക്ക് സ്മാർട്ട് ബോർഡ് ഉണ്ട് ഇലക്ട്രോണിക് ബോർഡുകൾ പഠന മാനേജുമെന്റ് സംവിധാനങ്ങൾ വൈവിധ്യമാർന്ന സാങ്കേതികവിദ്യകൾ ലഭ്യമാണ് തിരഞ്ഞെടുത്ത സാങ്കേതികവിദ്യ പ്രബോധന സാമഗ്രികളുടെയും പഠന സാമഗ്രികളുടെയും പ്രബോധനത്തിലും വികാസത്തിലും സ്വാധീനം ചെലുത്തുന്നു ഞങ്ങൾ നിർദ്ദേശ രൂപകൽപ്പന വളരെ ഹ്രസ്വമായി നോക്കി അടുത്ത മൊഡ്യൂൾ പ്രാഥമികമായി നിർദ്ദേശത്തിലാണ് എന്നാൽ ഇവിടെ ഞങ്ങൾ നിർദ്ദേശ രൂപകൽപ്പനയെക്കുറിച്ച് ഹ്രസ്വമായി നോക്കി തുടർന്ന് പ്രബോധന സാമഗ്രികളുടെ വികസനം തുടർന്ന് തിരിച്ചറിയൽ തിരഞ്ഞെടുക്കൽ പഠന സാമഗ്രികളുടെ തയ്യാറാക്കൽ ഇവയാണ് ഞങ്ങൾ വികസന ഘട്ടത്തിൽ നോക്കിയത് ഔട്ട്പുട്ട് ഒരുതരം ഫോർമാറ്റീവ് മൂല്യനിർണ്ണയത്തിലൂടെ കടന്നുപോകണം ആവശ്യമെങ്കിൽ പ്രവർത്തനങ്ങൾ വീണ്ടും സന്ദർശിക്കണം ഞങ്ങൾ നടപ്പാക്കൽ ഘട്ടത്തിലെത്തിയപ്പോൾ യഥാർത്ഥത്തിൽ ഇവയെല്ലാം ഒടുവിൽ ക്ലാസ് റൂം പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് നിരവധി വശങ്ങളുണ്ട് നിരവധി ഘടകങ്ങൾ സിലബസ് സാധ്യമായ വൈവിധ്യമാർന്ന ഇനങ്ങൾ വിഭവങ്ങൾക്കായുള്ള ആസൂത്രണം വിദ്യാർത്ഥികളുടെ കഴിവുകളെക്കുറിച്ച് ഇൻസ്ട്രക്ടറുടെ ധാരണ പ്രചോദനം മുൻവ്യവസ്ഥാ അറിവ് ഇവയെല്ലാം വളരെ പ്രധാനമാണ് കാരണം ഇത് യഥാർത്ഥത്തിൽ നിർദ്ദേശം നടക്കുന്നുതിനെ അത്രത്തോളം സ്വാധീനിക്കുന്നു വിദ്യാർത്ഥികളുടെ കഴിവുകൾ മുൻവ്യവസ്ഥാ അറിവ് പ്രചോദനം എന്നിവയുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ടറുടെ ധാരണ ഇവയെല്ലാം ചിത്രത്തിലേക്ക് വരുന്നു യഥാർത്ഥ നിർദ്ദേശ ഷെഡ്യൂൾ പ്രബോധനത്തെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ ഓരോ ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിനുശേഷവും ഞങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇൻസ്ട്രക്ഷൻ യൂണിറ്റ് എങ്ങനെയാണ് പോയത് എന്നതിനെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കണം ഈ പ്രശ്നങ്ങളെല്ലാം നിശ്ചിത സമയത്തിനപ്പുറം ഇൻസ്ട്രക്ടർ നടത്തുന്ന അധിക സെഷനുകൾ എന്തുകൊണ്ടാണ് അവ ആവശ്യമായി വന്നത് അധിക സെഷൻ ഏടുത്ത വിഷയങ്ങൾ എല്ലാം റെക്കോർഡുചെയ്യാനാകും മൂല്യനിർണ്ണയ ഉപകരണങ്ങൾ തുടർന്ന് ഓരോ മൂല്യനിർണ്ണയത്തിനും ശേഷം വിദ്യാർത്ഥികൾക്ക് ഫീഡ്ബാക്ക് ഓരോ ആന്തരിക പരിശോധനയ്ക്കും ശേഷം ഓരോ ക്വിസിനും ശേഷം അസൈൻമെന്റുകൾ വിലയിരുത്തിയ ശേഷം ഇത് വളരെ പ്രധാനമാണ് വിദ്യാർത്ഥികൾക്ക് ഫീഡ്ബാക്ക് നൽകണം ഈ വിലയിരുത്തലുകൾ സ്വഭാവത്തിൽ സംഗ്രഹമാണെങ്കിലും ഗുണനിലവാരമുള്ള പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വിദ്യാർത്ഥികൾക്കുള്ള ഫീഡ്ബാക്ക് വളരെ പ്രധാനമാണ് ഓരോ വിലയിരുത്തലിനും ശേഷം വിദ്യാർത്ഥികൾക്ക് ഫീഡ്ബാക്ക് മൂല്യനിർണ്ണയ ഉപകരണങ്ങളെയും വിദ്യാർത്ഥികളുടെ പ്രകടനത്തെയും കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ മൂല്യനിർണ്ണയ ഉപകരണത്തിന്റെ ഗുണനിലവാരം എന്താണ് തുടർന്ന് വിദ്യാർത്ഥികളുടെ പ്രകടന നില എന്താണ് വിദ്യാർത്ഥികളുടെ പ്രകടനം പ്രതീക്ഷിച്ചതിലും താഴെയുള്ള ഏതെങ്കിലും നിർദ്ദിഷ്ട ഇനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനർത്ഥം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നതിനോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കഴിവുകളിലേക്കോ ചില തടസ്സങ്ങളുണ്ട് അവയൊക്കെ എന്തൊക്കെയാണ് അവയെല്ലാം റെക്കോർഡുചെയ്യണം മൂല്യനിർണ്ണയ ഉപകരണങ്ങളെയും വിദ്യാർത്ഥികളുടെ പ്രകടനത്തെയും കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുടെ പ്രകടനങ്ങൾക്ക് തുല്യമായ ചില കഴിവുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കണം കാരണം അടുത്ത തവണ കോഴ്സ് വാഗ്ദാനം ചെയ്യുന്നു ആ കഴിവുകളുമായി ബന്ധപ്പെട്ട് മികച്ച പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇൻസ്ട്രക്ടർ എന്തെങ്കിലും ചെയ്യണം വിദ്യാർത്ഥികളുടെ പ്രകടനം ശ്രദ്ധാപൂർവ്വം പരിശോധിക്കുകയും ഈ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ് സെഷനിൽ വിദ്യാർത്ഥികളുടെ ഫീഡ്ബാക്കിൽ മിഡ് കോഴ്സ് സർവേകളിലൂടെയോ അനൌപചാരിക സർവേകളിലൂടെയോ ഡാറ്റ ശേഖരിക്കപ്പെടുകയും അതും റെക്കോർഡുചെയ്യുകയും വേണം അത് വീണ്ടും വളരെ പ്രധാനമാണ് വിദ്യാർത്ഥികളിൽ നിന്ന് സാധുതയുള്ളതും ഉപയോഗപ്രദവുമായ ഫീഡ്ബാക്ക് ലഭിക്കുന്ന തരത്തിൽ മിഡ് കോഴ്സ് സർവേകൾ നടത്താനുള്ള മാർഗങ്ങളുണ്ട് തീർച്ചയായും ഞങ്ങൾ വിദ്യാർത്ഥികളെ ട്രാക്കുചെയ്യണം ഇവയെല്ലാം നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ നടക്കുന്ന സാധാരണ പ്രവർത്തനങ്ങളാണ് വിലയിരുത്തൽ ഘട്ടം "വിലയിരുത്തൽ" ഓരോ ഘട്ടത്തിനുശേഷവും സംഭവിക്കുന്നുവെന്ന് സൂചിപ്പിച്ചിരുന്നു പക്ഷേ അത് ഫോമേറ്റിവ് പ്രകൄതമാണ് ഇത് സമ്മേറ്റിവ് ആണ് ഇത് ADDIE മോഡലിന്റെ അവസാന ഘട്ടമാണ് കോഴ്സ് എങ്ങനെ നടപ്പാക്കി എന്നതിന്റെ സംഗ്രഹപരമായ വിലയിരുത്തലിനായി ഇത് വീണ്ടും നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നു കോഴ്സ് എക്സിറ്റ് സർവേകളുണ്ട് കോഴ്സിന്റെ സിഒകളുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ നേട്ടം കണക്കാക്കുന്നു സിഒ നേടുന്നതിലോ ടാർഗെറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിലോ ഉള്ള വിടവ് നികത്തുന്നതിനുള്ള നടപടികൾ നിർദ്ദേശിക്കുന്നു ഡിസൈൻ ഘട്ടത്തിൽ ഞങ്ങൾ ടാർഗെറ്റുകൾ സജ്ജമാക്കി യഥാർത്ഥ നേട്ടം കണക്കാക്കി നേടിയ ലെവൽ ടാർഗെറ്റ് ലെവലിനേക്കാൾ കുറവാണെങ്കിൽ ഞങ്ങൾ മെച്ചപ്പെടുത്തൽ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് നേടിയ ലെവൽ ടാർഗെറ്റ് ലെവലിനേക്കാൾ തുല്യമോ കൂടുതലോ ആണെങ്കിൽ ഞങ്ങൾക്ക് ചോയ്സ് ഉണ്ട് ടാർഗെറ്റിന്റെ മുകളിലേക്ക് പുനരവലോകനം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും ഉയർന്ന ലക്ഷ്യം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതേ ടാർഗെറ്റ് ലെവൽ നിലനിർത്താനും അടുത്ത തവണയും ഈ നേട്ടം ആവർത്തിക്കാൻ കഴിയുമോ എന്ന് നോക്കാനും കഴിയും ടാർഗെറ്റ് ലെവലുകൾ ഞങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ ആവശ്യമെങ്കിൽ മെച്ചപ്പെടുത്തൽ അല്ലെങ്കിൽ ടാർഗെറ്റിന്റെ പുനരവലോകനം എന്നിവയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിരീക്ഷണം രേഖപ്പെടുത്തണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് കോഴ്സ് ഫലങ്ങൾ കൈവരിക്കുന്നതിലൂടെ പിഒകളും പിഎസ്ഒകളും കൈവരിക്കുന്നു സിഒകളുടെ നേട്ടം കണക്കുകൂട്ടിയതിനുശേഷം പിഒകളുടെയും പിഎസ്ഒകളുടെയും നേട്ടം ഞങ്ങൾ കണക്കാക്കണം തുടർന്ന് സംഗ്രഹ നിരീക്ഷണങ്ങൾ പിയർ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഇവയെല്ലാം ശേഖരിക്കും എക്സിറ്റ് സർവേയുടെ വിശദാംശങ്ങളും ഞങ്ങൾ പരിശോധിച്ചു കാരണം വിശാലമായ എക്സിറ്റ് സർവേ സ്വഭാവം അതേപടി നിലനിൽക്കുന്നു പക്ഷേ അവ കോഴ്സുകളാണോ അല്ലെങ്കിൽ അവ ലബോറട്ടറി കോഴ്സുകളാണോ അല്ലെങ്കിൽ ഒരു കോഴ്സിന്റെ ലബോറട്ടറി ഘടകങ്ങളാണോ അല്ലെങ്കിൽ ഇലക്ടീവ് കോഴ്സുകൾ അല്ലെങ്കിൽ മിനി പ്രോജക്ടുകൾ അല്ലെങ്കിൽ പ്രധാന പ്രോജക്ടുകൾ എന്നിവയാണോ എന്നതിനെ ആശ്രയിച്ച് വിശദാംശങ്ങൾ വ്യത്യാസപ്പെടാം അതിനാൽ കോഴ്സുകൾക്കായുള്ള എക്സിറ്റ് സർവേകൾ ഞങ്ങൾ പരിശോധിച്ചു അതായത് പ്രധാനമായും കോർ കോഴ്സുകൾ തുടർന്ന് ലബോറട്ടറികൾ കോർ കോഴ്സുകളുടെയും സ്വതന്ത്ര ലബോറട്ടറി കോഴ്സുകളുടെയും ഘടകങ്ങളായി ഇലക്ടീവ് കോഴ്സുകൾ പ്രോജക്ടുകൾ മിനി പ്രധാന പ്രൊജക്റ്റ് ഈ പ്രവർത്തനങ്ങൾക്കായി എക്സിറ്റ് സർവേകൾ എങ്ങനെ രൂപകൽപ്പന ചെയ്യാം അവസാന ഘട്ടം ഫീഡ്ബാക്കുകളും സംഗ്രഹവും പ്രോസസ്സ് ചെയ്യുകയും ഒടുവിൽ അടുത്ത തവണ കോഴ്സ് വാഗ്ദാനം ചെയ്യുമ്പോൾ അത് മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികളെക്കുറിച്ച് സ്വയം കുറിപ്പുകൾ തയ്യാറാക്കുകയും ചെയ്യുന്നു ഞങ്ങൾ ഇവ നിരീക്ഷിച്ചു എന്നാൽ ഇതും വീണ്ടും ഒരു രൂപീകരണ വിലയിരുത്തലിലൂടെ കടന്നുപോകേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ ഞങ്ങൾ സൃഷ്ടിച്ച പ്രമാണങ്ങളും ഈ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും വീണ്ടും സന്ദർശിക്കേണ്ടതുണ്ടോ എന്നറിയാൻ വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് എക്സിറ്റ് സർവേകളുടെ രൂപകൽപ്പന അല്ലെങ്കിൽ പരോക്ഷ നേട്ട മൂല്യങ്ങൾ കണക്കാക്കുന്ന രീതി ഈ പ്രവർത്തനങ്ങളെല്ലാം വീണ്ടും സന്ദർശിക്കേണ്ടതുണ്ട് അത് വിലയിരുത്തൽ ഘട്ടത്തിന്റെ പ്രക്രിയ പൂർത്തിയാക്കും ചുരുക്കത്തിൽ ഞങ്ങൾ ADDIE കോഴ്സ് ഡിസൈൻ നോക്കിയാൽ ADDIE ഉപപ്രക്രിയകൾ നിർദേശ സാഹചര്യങ്ങളായി അഡ്ജസ്റ്റു ചെയ്യാം ADDIE തികച്ചും വഴക്കമുള്ളതാണ് മൊഡ്യൂൾ 2 ഒരു കൂട്ടം ഉപപ്രക്രിയകൾ അവതരിപ്പിച്ചു പക്ഷേ ഈ പ്രക്രിയകൾക്ക് അന്തിമതയില്ല നിർദ്ദിഷ്ട സന്ദർഭത്തിന് അനുസൃതമായി ഇത് പൊരുത്തപ്പെടുത്താനാകും ADDIE ന്റെ ചട്ടക്കൂടിൽ ആദ്യമായി ഒരു കോഴ്സ് രൂപകൽപ്പന ചെയ്യുന്നത് ഒരു അധ്യാപകന് ബുദ്ധിമുട്ടുള്ളതും ഭയപ്പെടുത്തുന്നതുമാണ് വളരെ വലിയ എണ്ണം പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു പ്രാരംഭ രൂപകൽപ്പനയ്ക്ക് ശേഷം കോഴ്സ് രൂപകൽപ്പനയുടെ മുഴുവൻ പ്രക്രിയയും അധ്യാപകർ വളരെ മനോഹരവും ഫലപ്രദവുമാണെന്ന് കണ്ടെത്തുകയും അത് കൂടുതൽ തൃപ്തികരമായ ഒരു നിർദ്ദേശത്തിലേക്ക് നയിക്കുകയും അത് മികച്ച വിദ്യാർത്ഥി പഠനത്തിലേക്ക് നയിക്കുകയും ചെയ്യും അതിനാൽ പ്രാരംഭ രൂപകൽപ്പനയ്ക്ക് ശേഷം കോഴ്സ് രൂപകൽപ്പനയുടെ മുഴുവൻ പ്രക്രിയയും മനോഹരമായ ഒരു പ്രവർത്തനം പോലും അധ്യാപകർ കണ്ടെത്തും ചിട്ടയായ കോഴ്സ് ഡിസൈൻ പഠന നിലവാരം മെച്ചപ്പെടുത്തുകയും എൻബിഎ ഫലങ്ങൾ മികച്ച രീതിയിൽ നേടുകയും ചെയ്യും കോഴ്സ് തലത്തിൽ രണ്ടും കോഴ്സ് ഫലത്തിന്റെ മികച്ച നേട്ടവും അതുവഴി പ്രോഗ്രാം ഫലങ്ങളും പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങളും മെച്ചപ്പെടുത്തുന്നു അങ്ങനെ ഇത് മികച്ച പഠനത്തിലേക്കും എൻബിഎ ഫലങ്ങളുടെ മികച്ച നേട്ടത്തിലേക്കും നയിക്കുന്നു മാത്രമല്ല അത്തരം ചിട്ടയായ പ്രക്രിയ പിന്തുടരുന്നത് വളരെ സഹായകരമാണ് മൊഡ്യൂൾ 3 നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പ്രബോധനത്തിന്റെ വശങ്ങൾ എന്താണ് നിർദ്ദേശം പ്രബോധന ഘടകങ്ങൾ എന്തൊക്കെയാണ് അത്തരം പ്രബോധന സമീപനങ്ങളുടെ സൈദ്ധാന്തിക അടിത്തറ എന്തൊക്കെയാണ് വ്യത്യസ്ത നിർദ്ദേശപരമായ സമീപനങ്ങൾ എന്നിവ ഞങ്ങൾ നോക്കുന്നു ആ മൊഡ്യൂളിൽ വളരെ വിശാലമായി ഞങ്ങൾ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് നന്ദി ഞങ്ങൾ മൊഡ്യൂൾ 2 ന്റെ അവസാനത്തിൽ വന്നു